ഇതുവരെ നാം ഐക്കോണിക് മെമ്മറിയെക്കുറിച്ചാണ് സംസാരിച്ചത് ഇനി സെൻസറി മെമ്മറിയുടെ മറ്റൊരു രൂപമായ എക്കോയിക് മെമ്മറി എന്താണെന്ന് നമുക്ക് നോക്കാം ഐക്കോണിക് മെമ്മറിയുടെ കാര്യത്തിൽ നാം ചർച്ച ചെയ്തതെന്തെന്നാൽ നിലനിർത്താൻ കഴിയുന്ന മൊത്തം വിവരങ്ങളുടെ തോത് അൽപ്പം കൂടുതലാണ് എന്നാൽ ദൈർഘ്യത്തിൻറെ കാര്യത്തിൽ എക്കോയിക് മെമ്മറിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന് ഹ്രസ്വമായ കാലയളവാണുള്ളത് എക്കോയിക് മെമ്മറിയിൽ 4 മുതൽ 5 സെക്കൻറ് വരെ വിവരങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്നു കൂടാതെ കുറഞ്ഞത് 250 മില്ലിസെക്കൻറോ അതിൽ കൂടുതലോ ക്രമമായി ശേഖരിക്കുവാൻ ഇതിന് കഴിയുന്നു കഴിഞ്ഞ പാഠഭാഗത്ത് നാം ചർച്ചചെയ്ത കാര്യങ്ങൾ ഓർത്തെടുക്കാം നാം ഈ സംസാരിച്ച രീതികൾ സംവേദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാം ചെവിയെ കുറിച്ച് സംസാരിച്ചു പ്രത്യേകിച്ച് നാഡീ അറ്റങ്ങളും ദ്രാവകം നിറഞ്ഞിരിക്കുന്ന കോക്ലിയയുമുള്ള ആന്തരിക ചെവി കോക്ലിയയിൽ ഉണ്ടാകുന്ന തരംഗങ്ങൾ ഉണ്ടാവുകയും അത് അവസാനിക്കാൻ കുറച്ച് സമയമെടുക്കുകയും ചെയ്യുന്നു അതിനാൽ സെൻസറി മോഡാലിറ്റിയിൽ സൂക്ഷിക്കുന്ന വിവരങ്ങളുടെ അളവ് താരതമ്യേന കൂടുതലായിരിക്കും മുൻപ് പറഞ്ഞതുപോലെ കണ്ണുകളുടെ കാര്യത്തിൽ സിസിൽ നിന്നും ട്രാൻസ് ആകൃതിയിലേക്കും അതുപോലെ തിരിച്ച് സിസ് ആകൃതിയിലേക്കും നടക്കുന്ന പ്രക്രിയ വിവരശേഖരണത്തെ സുഗമമാക്കുന്നു എക്കോയിക് മെമ്മറിയുടെ കാര്യത്തിൽ കോക്ലിയയിൽ സൃഷ്ടിക്കപ്പെടുന്ന തരംഗങ്ങൾ ശമിക്കുന്നതാണ് അങ്ങനെ ശ്രവണ പ്രേരണയാൽ പുറം ലോകത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നേത്രങ്ങളിൽനിന്നു ലഭിക്കുന്നതിനേക്കാൾ തോത് കുറഞ്ഞതാണെങ്കിലും അവ ദൈർഘ്യത്തിൻറെ കാര്യത്തിൽ ഐക്കോണിക് മെമ്മറിയെക്കക്കാൾ കൂടുതലാണ് ഈ രണ്ട് ഓർമകളും വളരെ പരിമിതമായ സമയത്തേക്കാണ് ഐക്കോണിക് മെമ്മറി 1 മുതൽ 2 സെക്കൻറ് വരെയും എക്കോയിക് മെമ്മറി പരമാവധി 4 മുതൽ 5 സെക്കൻറ് വരെയുമാണ് സെൻസറി മോഡാലിറ്റിയുടെ തലത്തിൽ പോലും തെളിച്ചവും ആവരണ ക്രമവും ഐക്കോണിക് മെമ്മറിയുടെ കാര്യത്തിൽ സാധ്യമാണല്ലോ അതുപോലെ എക്കോയിക് മെമ്മറിയുടെ കാര്യത്തിൽ ശബ്ദാവരണം എന്നത് ഒരു തടസ്സമായി മാറുന്നു കാരണം ശ്രവണ പ്രേരണയുടെ ഏറ്റവും ശുദ്ധമായ രൂപം പോലും പരമാവധി 5 സെക്കൻറിൽ കൂടുതൽ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എക്കോയിക് ഐക്കോണിക് മെമ്മറികൾ ചർച്ച ചെയ്ത സ്ഥിതിക്ക് ഇനി നമുക്ക് ഇവ രണ്ടിനെയും താരതമ്യം ചെയ്യാം ദൈർഘ്യത്തിൻറെ കാര്യത്തിൽ ഐക്കോണിക് മെമ്മറി 1 മുതൽ 2 സെക്കൻറു വരെയും എക്കോയിക് മെമ്മറി 4 മുതൽ 5 സെക്കൻറു വരെയുമാണ് ഐക്കോണിക് മെമ്മറിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എക്കോയിക് മെമ്മറിയുടെ ദൈർഘ്യം അൽപ്പം കൂടുതലാണ് എന്നാൽ ഐക്കോണിക് മെമ്മറിയിൽ ഒരുപാട് വിവരങ്ങൾ സംഭരിക്കാനും നിലനിർത്താനും കഴിയുന്നു ഐക്കോണിക് റിറ്റെൻഷൻറെ കാര്യത്തിൽ ഏകദേശം 11 മുതൽ 16 വസ്തുക്കൾ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്നു എക്കോയിക് റിറ്റെൻഷനിൽ തുല്യ തീവ്രതയുള്ള രണ്ട് ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അത് ശക്തിപ്പെടുന്നു ഇനി നമുക്ക് ഓർമ്മയുടെ മറ്റൊരു രൂപത്തെ മനസ്സിലാക്കാം ഹ്രസ്വകാല ഓർമ്മ ആയുസ്സിൻറെ കാര്യത്തിൽ ഹ്രസ്വകാല ഓർമ്മക്ക് സെൻസറി മെമ്മറിയെക്കാൾ കൂടുതൽ ദൈർഘ്യമുണ്ട് ഐക്കോണിക്കിന് 1 മുതൽ 2 സെക്കൻറു വരെയും എക്കോയിക്കിന് 4 മുതൽ 5 സെക്കൻറു വരെയും എന്നാൽ ഹ്രസ്വകാലത്തിന് വിവരം ഏകദേശം 30 സെക്കൻറു വരെയും സൂക്ഷിക്കാൻ സാധിക്കുന്നു ഹ്രസ്വകാല ഓർമ്മയിൽ വിവരങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്ന വഴക്കമുള്ളതായ സമയ പരിധി 20 മുതൽ 30 സെക്കൻറു വരെയാകുന്നു ഇതിനർത്ഥമെന്തെന്നാൽ 30 സെക്കൻഡ് അവസാനിച്ചതിന് ശേഷം ഒന്നുകിൽ ഹ്രസ്വകാല ഓർമ്മയുടെ തലത്തിലുള്ള വിവരങ്ങൾ ദീർഘകാല സംഭരണത്തിലേക്ക് പോകാം അല്ലെങ്കിൽ ഈ വിവരങ്ങൾ മാറ്റിസ്ഥാപിക്കപ്പെടുകയോ പിന്നീട് വരുന്ന വിവരങ്ങളാൽ നീക്കം ചെയ്യപ്പെടുകയോ ചെയ്യുന്നു സമഗ്രമായ ഓർമ്മയുടെ മാതൃകയും വിവരങ്ങൾ നഷ്ടമാകുന്നതിനെക്കുറിച്ചും നാം നേരത്തെ മനസ്സിലാക്കിയല്ലോ സെൻസറി മെമ്മറി ഹ്രസ്വകാല ഓർമ്മ ദീർഘകാല മെമ്മറി ഇവയിൽ എല്ലാം തന്നെ വിവരങ്ങൾ നഷ്ടമാകുന്നുണ്ട് എന്നാൽ ഹ്രസ്വകാല സംഭരണത്തിൻറെ കാര്യത്തിൽ വിവരം ഒന്നുകിൽ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ അതുമല്ലെങ്കിൽ പിന്നീട് വരുന്ന വിവരത്താൽ മാറ്റപ്പെടുകയോ ചെയ്യുന്നു എന്നാൽ ഹ്രസ്വകാല സംഭരണത്തിലേക്ക് വരുന്ന വിവരങ്ങൾ എൻകോഡ് ചെയ്യപ്പെടുന്നു എന്നതാണ് ഹ്രസ്വകാല ഓർമ്മയെ സംബന്ധിച്ച ഒരു കാര്യം ശ്രവണസംബന്ധമായ ഘടനയിൽ ഉൾകൊള്ളുന്ന സംസാരം ശബ്ദം ദൃശ്യ ചിത്രങ്ങൾ വാക്കുകൾ എന്നിവ കോഡുകളുടെ രൂപത്തിൽ ഹ്രസ്വകാല ഓർമ്മയിൽ നിലനിർത്തപ്പെടുന്നു ഇവ അർത്ഥവത്തായ കാര്യങ്ങളാണ് സംഭാഷണത്തിന് അർത്ഥമുണ്ട് ശബ്ദങ്ങൾക്ക് അർത്ഥമുണ്ടായിരിക്കാം ദൃശ്യ ചിത്രങ്ങൾ നോൺസെൻസ് സിലബിൾസ് അല്ലാത്ത വാക്കുകളെയോ മറ്റെന്തിനെയെങ്കിലുമോ പ്രതിനിധീകരിക്കുന്നതായിരിരിക്കും അവ വാക്കുകളാണ് ആയതിനാൽ അവയ്ക്ക് അർത്ഥവുമുണ്ട് ഹ്രസ്വകാല ഓർമ്മയിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രധാനമായും സെമാൻറിക്ക് രീതിയിലുള്ളവയും അർത്ഥവത്തായവയുമാണ് അർത്ഥവത്തായ വാക്കുകൾ ചിഹ്നങ്ങൾ ശബ്ദങ്ങൾ എന്നിവ പല രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങളെ പര്യാപ്തരാക്കുന്നു അർത്ഥശൂന്യമായ വാക്കുകൾക്ക് ഇതിന് സാധ്യമല്ല നിങ്ങൾ അത് വിശദീകരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത് ഓർത്തെടുക്കുന്നു പെർസെപ്ച്വൽ വിശകലനം ഘടനാപരമായ വിശകലനം സെമാൻറിക് വിശകലനം ഇവയെല്ലാം ഓർമ്മയിൽ വ്യത്യസ്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതിനാൽ നാം അർത്ഥ തലത്തിലേക്ക് ഇറങ്ങിചെല്ലുമ്പോൾ സ്വധവേ വിവരങ്ങൾ വിശാലാർത്ഥത്തിൽ വിശദീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ആയതിനാൽ അർത്ഥശൂന്യമായ കാര്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അർത്ഥവത്തായ കാര്യങ്ങൾക്കും സെമാൻറിക് കാര്യങ്ങൾക്കും കൂടുതൽ ആയുസ്സുണ്ടാകും നോൺസെൻസ് സിലബിൾസിനെയും അർത്ഥവത്തായ വാക്കുകളെളെയും താരതമ്യപ്പെടുത്തുന്ന ഒരുപാട് ഗവേഷണങ്ങൾ മനഃശാസ്ത്രത്തിൽ നടക്കുന്നുണ്ട് നോൺസെൻസ് സിലബിൾസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അർത്ഥവത്തായ വാക്കുകൾക്ക് ഓർമ്മയിൽ സംഭരിക്കാൻ നല്ല ശേഷിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റോസ എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റോസയുടെ മാനസിക ചിത്രം രൂപപ്പെടുത്താൻ സാധിക്കുന്നു അതുവഴി റോസ് എന്ന വാക്കിൻറെ ഓർമ്മ എക്സ് റ്റി പി വൈ എന്ന വാക്കിനെ അപേക്ഷിച്ച് അൽപം കൂടി നീണ്ടുനിൽക്കുന്നു എന്തെന്നാൽ എക്സ് റ്റി പി വൈ എന്നത് പ്രസക്തിയില്ലാത്ത വെറും നാലക്ഷരങ്ങളാകുന്നു നിങ്ങൾ അത് വളരെ നല്ലതുപോലെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു കുറച്ചു സമയം ഓർമയിൽ നിലനിർത്താൻ സാധിക്കുന്നു പക്ഷെ അത്തരം വിവരങ്ങൾ അത്തരം നോൺസെൻസ് സിലബിൾസ് ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു ഹ്രസ്വകാല ഓർമ്മയിൽ വലിയ അളവിലുള്ള വിവരം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെ ചെറു ഭാഗങ്ങളായി വിഭജിക്കുവാനുള്ള സാധ്യതയുണ്ട് ഓർത്തുനോക്കൂ നിങ്ങൾക്ക് ഒരു സംഖ്യ നൽകിയിരിക്കുന്നു അതിന് ഒരു അക്കങ്ങളുടെ ഒരു ശൃംഖലയുണ്ട് ഈ ഉദാഹരണം നമുക്ക് സ്ലൈഡിൽ കാണാം ശേഷം ഞാൻ വീണ്ടും ചർച്ചയിലേക്ക് വരാം സ്ക്രീനിൽ ചില നമ്പറുകൾ കാണുന്നില്ലേ ഈ സംഖ്യ മനഃപാഠമാക്കി കുറഞ്ഞത് 30 സെക്കൻഡ് നിലനിർത്താൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ അത് ഹ്രസ്വകാല ഓർമ്മയുടെ കാലാവധിയാണ് നിങ്ങൾ അവ ഓരോന്നിനെയും ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ശൃംഖല ലഭിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ആകെ 14 അക്കങ്ങളുണ്ട് ഇപ്പോൾ ഇത് 14 വ്യത്യസ്ത വിവരങ്ങളായി ഓർത്തെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഹ്രസ്വകാല സംഭരണത്തെ വലിയൊരു പ്രതിസന്ധിയിലാക്കുന്നു സാധാരണയായി നമ്മൾ വിവരങ്ങളെ രണ്ടോ മൂന്നോ ഭാഗങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതിനാൽ ആരെങ്കിലും രണ്ട് ഭാഗങ്ങളാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതിനെ 6 5 4 6 5 1 1 51 1 3 1 3 1 എന്നിങ്ങനെയാക്കുന്നു അതായത് 14 അക്കങ്ങൾ ഇപ്പോൾ 7 സെറ്റുകളായി ഇങ്ങനെയുള്ള ലളിതമായ 7 വിവരങ്ങൾ നിങ്ങളുടെ തലച്ചോറിന് വളരെ എളുപ്പത്തിൽ സംഭരിക്കാവുന്ന ഒന്നായി മാറുന്നു ഇതുപോലെ 3 അക്കങ്ങളുടെ കൂട്ടമായി മാറ്റുന്ന ആളുകളുമുണ്ട് അപ്പോൾ അവർക്ക് 5 സെറ്റ് സംഖ്യകൾ മാത്രമേ ഓർത്തെടുക്കേണ്ടതുള്ളൂ അതുവഴി ഈ സംഖ്യകൾ ഓർത്തെടുക്കുന്നത് വളരെ എളുപ്പമായി മാറുകയും ചെയ്യുന്നു ഭാഗങ്ങളാക്കി തിരിച്ച സംഖ്യകളെയാണ് നാം ഓർത്തെടുക്കുക അങ്ങനെ 6 5 4 6 5 1 1 5 1 9 3 1 3 1 എന്ന സംഖ്യ ഇപ്പോൾ കൂടുതൽ ലളിതമാകുന്നു ഉദാഹരണമായി 10 അക്ക സംഖ്യയായ മൊബൈൽ നമ്പർ ഓർത്തെടുക്കുന്നു അത് ഓർത്തെടുക്കാൻ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ സ്വന്തം ഉദാഹരണം എടുക്കുകയാണെങ്കിൽപ്പോലും നിങ്ങൾക്ക് മൂന്നോ നാലോ മൊബൈൽ നമ്പറുകളിൽ കൂടുതൽ ഓർമ്മിക്കാൻ സാധിക്കില്ലയെന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട മൊബൈൽ നമ്പറുകൾ മാത്രം നിങ്ങൾ ഓർക്കുന്നു രക്ഷകർത്താക്കളുടെ ആത്മ സുഹൃത്തുക്കളുടെ സഹോദരങ്ങളുടെ തുടങ്ങിയവ നാം ചെയ്യുന്നതെന്താണെന്ന് വച്ചാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഓർക്കാൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവയെ പല ഭാഗങ്ങളാക്കി വിഭജിക്കുകയോ അതിലെ രണ്ടോ മൂന്നോ എണ്ണത്തിനെ ചേർത്ത് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു 4 ഭാഗങ്ങൾ ചേർത്ത് ഓർത്തു വയ്ക്കുന്നത് സാധാരണയായി പ്രായോഗികമല്ല കാര്യങ്ങൾ വളരെ എളുപ്പമായിത്തീരുകയും അതുവഴി 5 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ ഹ്രസ്വകാല സംഭരണത്തിൽ വളരെ എളുപ്പത്തിൽ സൂക്ഷിക്കാൻ കഴിയുകയും ചെയ്യുന്നു അതിനാൽ 9 ഭാഗങ്ങൾ എന്നത് 9 നെ 3 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഒന്നിൽ 3 എണ്ണം ഉൾക്കൊള്ളുന്ന രീതിയിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായി 27 ഖണ്ഡം വിവരങ്ങൾ വരെ ഏകദേശം 30 സെക്കൻറോളം സൂക്ഷിക്കാൻ കഴിയുന്നു സമാനമായി കുട്ടികളിൽ ഏറ്റവും കുറഞ്ഞ സമയ പരിധി 5 ആണെങ്കിൽ 5 തവണ 3 എന്നത് 15 ആകുന്നു അതിനാൽ 15 വിവരങ്ങൾ ഒരു കുട്ടിക്ക് സംഭരിക്കുവാൻ സാധിക്കുന്നു തുടർന്ന് ഘടകങ്ങളുടെ എണ്ണം നാം വിപുലീകരിക്കുന്നുവെങ്കിൽ 4 ൻറെ ഭാഗങ്ങൾ എന്ന രീതിയിൽ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടാകുന്നു ഏകദേശം 40 ഘടകങ്ങൾ സംഭരിക്കാനാകുമെന്ന് ഗവേഷണ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ ഭാഗിക്കപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വീണ്ടെടുക്കുമ്പോളോ സംഭരിക്കുമ്പോളോ 40 വ്യത്യസ്ത ഘടകങ്ങൾ ഹ്രസ്വകാല ഓർമ്മയുടെ തലത്തിൽ തന്നെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഐക്കോണിക്കിനെ എക്കോയിക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 11 മുതൽ 16 വരെ ഘടകങ്ങൾ മാത്രമേ ഐക്കോണിക്ക് ഓർമ്മയുടെ തലത്തിൽ സെൻസറി ഓർമ്മയ്ക്ക് പരമാവധി നൽകുവാൻ കഴിയുകയുള്ളൂ ഇവിടെ 40 ഘടകങ്ങൾ വരെ നമുക്ക് ഹ്രസ്വകാല ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ കഴിയുന്നു അതിനാൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും വിവരങ്ങൾ നിൽക്കുന്ന താത്കാലിക ദൈർഘ്യത്തിൻറെ അടിസ്ഥാനത്തിലും ഇത് വലിയൊരു അന്തരം തന്നെയാണ് ഹ്രസ്വകാല ഓർമ്മയുമായി ബന്ധപ്പെട്ട രസകരമായ രണ്ട് കാര്യങ്ങൾ നോക്കാം ഉദാഹരണത്തിന് നിങ്ങളുടെ ചങ്ങാതിമാരാകാൻ കഴിയുന്ന 20 പേരുടെ പേരുകൾ പറയുന്ന ഒരു നാമാവലി നിങ്ങൾക്ക് നൽകുന്നു അത് നിങ്ങളോട് പറയുകയും നിങ്ങൾ അത് കേൾക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് രാംകുമാർ വിശ്വകർമ പ്രദീപ് കുമാർ സിൻഹ അരുൺ കുമാർ സിംഗ് വിശ്വകാന്ത് കുമാർ ശർമ മനഃശാസ്ത്രജ്ഞർ അവരുടെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മനഃശാസ്ത്രജ്ഞർ അർത്ഥമുള്ളതും ഇല്ലാത്തതുമായ വാക്കുകൾ വർദ്ധിച്ചുവരുന്ന പ്രയാസത്തിൻറെ ക്രമത്തിൽ പരീക്ഷണത്തിനായി എടുത്തു ഉദാഹരണത്തിന് s h e യും he യും ഇവ രണ്ട് അക്ഷരങ്ങളാണ് he എന്നത് സർവനാമവും s h e എന്നത് മൂന്ന് അക്ഷരങ്ങളുമാണ് അതിന് ഒരു അർത്ഥവുമുണ്ട് അതിനാൽ രണ്ടു അക്ഷരങ്ങളായ he യിൽ നിന്നും മൂന്ന് അക്ഷരങ്ങളായ she യ്ക്കുള്ള ബുദ്ധിമുട്ട് കുറയുകയുണ്ടായി അതുപോലെ h o m e home എന്നത് 1 2 3 4 അക്ഷരങ്ങളാണ് അതായത് ho 2 അക്ഷരങ്ങൾ hom 3 അക്ഷരങ്ങൾ home 4 അക്ഷരങ്ങൾ എന്നിങ്ങനെ തന്നിരിക്കുന്ന പട്ടികയിൽ ഉണ്ടാകുന്ന വർധനവനുസരിച്ച് നിങ്ങളും ഒരോ അക്ഷരം വീതം വർധിപ്പിക്കുന്നു ഇതിനെയാണ് ഹൈറാർക്കിക്കൽ ഡിഫിക്കൽറ്റി ലെവൽ എന്ന് വിളിക്കുന്നത് അതുപോലെ ഞാൻ നോൺസെൻസ് സിലബിൾസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു അർത്ഥവുമില്ലാത്ത രണ്ടു അക്ഷരങ്ങൾ ഞാൻ സ്ഥാപിക്കുന്നു X t എന്ന രണ്ടു അക്ഷരങ്ങൾ അവയെ h e യുമായി താരതമ്യപ്പെടുത്തുന്നു അതായത് he യെ xt എന്നും രണ്ടാമത്തെ വാക്കായ she യെ xtp എന്നും മൂന്നാമത്തെ 4 അക്ഷരമുള്ള വാക്കായ home എന്നതിനെ ഞാൻ xlzp എന്നും പറയുന്നു നിങ്ങൾ അർത്ഥവത്തായ വാക്കുകൾ അർത്ഥശൂന്യമായ വാക്കുകളും ഉപയോഗിക്കുമ്പോൾ രണ്ട് വ്യത്യസ്തമായ ഫലങ്ങൾ ഉണ്ടാകുന്നു ഈ രണ്ടു ഫലങ്ങളെ സംയോജിപ്പിക്കുമ്പോഴാണ് സീരിയൽ പൊസിഷൻ ഇഫക്റ്റ് ഉണ്ടാകുന്നത് ഈ ശ്രേണിയിലെ അർത്ഥവത്തായതോ അർത്ഥശൂന്യമായതോ ആയ പദത്തിൻറെ സ്ഥാനത്തെയാണ് സീരിയൽ പൊസിഷൻ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത് പ്രൈമസി ഇഫക്റ്റ് റീസൻസി ഇഫക്റ്റ് എന്നീ രണ്ടു ഫലങ്ങൾ സീരിയൽ പൊസിഷൻ ഇഫക്റ്റിനുണ്ട് പ്രാരംഭ ഘട്ടത്തിൽ അതായത് പ്രാഥമിക ഘട്ടത്തിൽ അവതരിപ്പിച്ച ഘടകങ്ങളെ വീണ്ടെടുക്കുന്നതിനെയാണ് പ്രൈമസി ഇഫക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് he she home എന്നിവയിൽ തുടങ്ങി knowledge government statistics തുടങ്ങി വലിയ വാക്കുകൾ വരെ തുടക്കത്തിൽ സംസാരിക്കുന്ന വാക്കുകളെ വളരെ പെട്ടെന്ന് വീണ്ടെടുക്കാൻ കഴിയാവുന്നവയാണെന്ന് മനസ്സിലാക്കാം കാരണം നിങ്ങൾ ആ പരീക്ഷക്ക് മാനസികമായി തയ്യാറായിരുന്നു ചില വാക്കുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്നും കൂടാതെ നിങ്ങളോട് അത് പുനർനിർമ്മിക്കാൻ ആവശ്യപ്പെടുമെന്നും നിങ്ങൾക്കറിയാം പരീക്ഷ അവസാനിക്കുന്നതിന് മുൻപ് വീണ്ടെടുക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അവസാനം വരുന്ന വാക്കുകൾ ഓർത്തെടുക്കാൻ വളരെയധികം സാധ്യതയുണ്ടാവുന്നു ഇതിനെയാണ് റീസൻസി ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത് കാരണം ഈ വാക്കുകളാണ് നിങ്ങൾ അവസാനമായി മനസ്സിലാക്കിയത് അതിനാൽ പ്രൈമസി ഇഫക്റ്റ് റീസൻസി ഇഫക്റ്റ് എന്നിവയാണ് ഹ്രസ്വകാല സംഭരണത്തിൽ പ്രധാനമായും കാണപ്പെടുന്നത് ഈ രണ്ട് ഫലങ്ങളെയും ചേർത്ത് സീരിയൽ പൊസിഷൻ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു വൈകിയ ഒർത്തെടുക്കലിലാണ് പ്രൈമസി ഇഫക്റ്റ് കാണപ്പെടുന്നത് എന്തെന്നാൽ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ പ്രാരംഭ ഘട്ടത്തിലുള്ള വസ്തുതകൾ ദീർഘകാല ഓർമയിലേക്ക് മാറ്റപ്പെടുന്നു ഇത് ഹ്രസ്വകാല സംഭരണത്തിൽ കാണുന്ന ഒന്നാണെങ്കിൽ പോലും അത് ദീർഘകാല സംഭരണത്തിലേക്ക് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട് ഹ്രസ്വകാല ഓഡിറ്ററി ഓർമ്മയുടെ കാര്യത്തിൽ രണ്ട് ഹ്രസ്വകാല ശ്രാവ്യ സംഭരണത്തിൻറെ തെളിവുകളാണുള്ളത് 150 മുതൽ 350 മില്ലിസെക്കൻഡ് വരെ പ്രവർത്തിക്കുന്ന ഒന്നും 2 മുതൽ 20 സെക്കൻഡ് വരെ നീണ്ടുനിൽക്കുന്ന മറ്റൊന്നും ഇതിൽ രണ്ട് വ്യത്യസ്തമായ ശ്രാവ്യ സംഭരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നാമിപ്പോൾ മനശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഈ പാഠ്യക്രമത്തിലെ ആമുഖമാണ് ചർച്ച ചെയ്യുന്നത് മോഡാലിറ്റി ഇഫക്റ്റ് എന്നും റീസൻസി ഇഫക്റ്റ് എന്നും വിളിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് റീസൻസി എന്നത് നാം നേരത്തെ ചർച്ച ചെയ്തല്ലോ എന്നാൽ ശ്രാവ്യ ഓർമ്മയുടെ കാര്യത്തിൽ സംസാര പദങ്ങൾക്ക് നേട്ടങ്ങളുണ്ട് ഹൃസ്വകാല സംഭരണത്തിൻറെ കാര്യത്തിൽ വിവരങ്ങൾ ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടെന്നാൽ സെൻസറി സംഭരണത്തിൽ നിന്നും വ്യത്യസ്തമായി വിവരങ്ങൾ എത്തിച്ചേരുകയും ഏകദേശം 30 സെക്കൻഡ് വരെ വിവരങ്ങൾ സംഭരിക്കാനുള്ള സാധ്യത കൈവരികയും ചെയ്യുന്നു ആവർത്തനത്തിൻറെ അർത്ഥമെന്താണെന്നും അതിൻറെ രണ്ട് വ്യത്യസ്ത തരങ്ങൾ ഏതോക്കെയനെന്നും മനസ്സിലാക്കുന്നതിനുമുമ്പ് നിങ്ങളുടെ മുൻകാല അനുഭവങ്ങളിലൊന്ന് ഓർമിച്ചുനോക്കുക ഞാൻ ഒരു സാഹചര്യം പറയുമ്പോൾ നിങ്ങൾ അനുഭവിച്ച മറ്റൊരു സാഹചര്യം നിങ്ങൾ ഓർത്തെടുക്കുന്നു ഉദാഹരണത്തിന് 2 5 9 7 0 2 4 എന്ന നമ്പർ നിങ്ങൾ ഡയറക്ടറിയിൽ കാണുന്നു ശേഷം നിങ്ങളുടെ ഫോൺ സ്വീകരണ മുറിയിലേക്ക് പോകുന്നു ടെലിഫോൺ ഡയറക്ടറി ഒരു സ്ഥലത്തും ടെലിഫോൺ മറ്റൊരു സ്ഥലത്തുമാണ് ഈ നമ്പർ ഡയൽ ചെയ്യുന്നതുവരെ നിങ്ങൾക്ക് അത് ഓർക്കേണ്ടതായും വരുന്നു 2542592592597024 - എന്ന നമ്പർ ഓർത്തിരിക്കാൻ അതിനെ പല ഭാഗങ്ങളാക്കുന്നു അതിനാൽ 259 എന്നത് ഒരു ഭാഗമായും 7024 എന്നത് മറ്റൊരു ഭാഗമായും രൂപപ്പെടുന്നു കൂടാതെ ആ ഹാൻഡ്സെറ്റെടുത്ത് ആ നമ്പർ ഡയൽ ചെയ്യുന്നതോടെ കുറച്ചു നേരത്തേക്ക് വേണ്ടി ഓർത്ത നമ്പർ നിങ്ങൾ മറക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിജയകരമായി നമ്പർ ഡയൽ ചെയ്യുന്നതുവരെ മാത്രമേ ഈ സംഭരണത്തിന് അതിൻറെ പ്രാധാന്യം ഉള്ളൂവെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ നമ്പർ പരിശീലിക്കുകയായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ വിജയകരമായി ഡയൽ ചെയ്യുന്നതുവരെ മാത്രം വിവരങ്ങൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്നതിനാൽ നിങ്ങൾ അത് പരിശീലിച്ചുകോണ്ടിരുന്നു ഇതിനെയാണ് പരിപാലന പരിശീലനം എന്ന് വിളിക്കുന്നത് ലക്ഷ്യം കൈവരിക്കുന്നതുവരെ നിങ്ങൾ വിവരങ്ങൾ പരിപാലിക്കുന്നു ഈ നമ്പർ ഡയൽ ചെയ്യുക എന്നതാണ് ലക്ഷ്യം അത്രേയുള്ളൂ കൂടുതൽ വിപുലമായ വിപുലീകരണത്തിനായി നിങ്ങൾ പോകുമ്പോളാണ് രണ്ടാമത്തെ പരിശീലന സമുച്ചയം നടക്കുക അതിനാൽ നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുകയും തുടർന്ന് അത് വിശദീകരിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു അതിനാൽ അത് പരിശീലിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ആരാണെന്നും എൻറെ പിതാവുമായി ഇയാൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എൻറെ പിതാവിൻറെ നല്ല സുഹൃത്തായ എൻറെ അയൽക്കാരൻറെ പേരാണ് അയാൾക്കുള്ളത് നാം ഇപ്പോൾ ആ വിവരത്തെ ഇപ്പോൾ വിപുലീകരിക്കുകയാണ് ചെയ്യുന്നത് ഈ പരിശീലനം ഇപ്പോൾ സ്വഭാവത്തിൽ വിശദമായി മാറുന്നു അതിനാൽ പരിപാലനം അടിസ്ഥാനമാക്കിയുള്ളതോ അല്ലെങ്കിൽ സ്വഭാവത്തിൽ വിശദമായി ഇരിക്കുന്നതോ ആയിട്ടുള്ള പരിശീലനത്തിൻറെ സാധ്യത ഹ്രസ്വകാലത്തിലുണ്ട് ഇത് സ്വഭാവത്തിൽ വിശദമായതാണെങ്കിൽ അതിനെ വിപുലമായ പരിശീലനമെന്ന് നാം പറയുന്നു കൂടാതെ ഇത് ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമാണെങ്കിൽ അതിനെ പരിപാലന പരിശീലനം എന്ന് വിളിക്കുന്നു കൂടാതെ ഹ്രസ്വകാല സംഭരണത്തിൽ പരിശീലനത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് ഇപ്പോൾ പരിപാലന പരിശീലനത്തിൽ വിവരങ്ങളുടെ മതിപ്പ് തുടരെ തുടരെ കാണപ്പെടുന്നു പക്ഷേ അത് ദീർഘകാല ഓർമ്മയിലേക്ക് വിവരങ്ങൾ കൈമാറുന്നതിൽ വിജയിക്കണമെന്നില്ല അതേസമയം വിപുലമായ പരിപാലനത്തിൽ വിവരങ്ങൾ ദീർഘകാല സംഭരണത്തിലേക്ക് മാറ്റപ്പെടാനുള്ള സാധ്യതയുണ്ടാകുന്നു വിപുലമായ പരിപാലനത്തിൻറെ കാര്യത്തിൽ അത് പരിപാലന പരിശീലനവുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ പരിശീലനം ചെയ്യുമ്പോൾ അതിന് അർത്ഥം നൽകുന്ന കാര്യത്തിൽ ആ വ്യവസ്ഥിതി വസ്തു നൽകുന്നത് അവസാനിപ്പിക്കുന്നുവോ നിങ്ങൾ അത് പരിശീലിക്കുകയാണ് എന്നാൽ അതിനു അർത്ഥം നൽകാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിനാൽ അർത്ഥം നിർണ്ണയിക്കപ്പെടുന്നതിനാൽ വിവരങ്ങളെ ഇത് കൂട്ടിച്ചേർക്കുവാൻ സഹായിക്കുന്നു നമ്മുടെ ദീർഘകാല സംഭരണത്തിൽ ഇതിനകം നിലവിലുള്ള വിവരങ്ങൾ കൊണ്ടുവരുന്നു കാരണം വിവരങ്ങൾ ഇപ്പോൾ ശ്രേണിയിൽ ചേർത്തിരിക്കുന്നതിനാൽ അത് അർത്ഥവത്തായ ക്രമത്തിൽ നൽകപ്പെടുന്നു അതിനാൽ ഇത് ദീർഘകാല സംഭരണത്തിന് അനുയോജ്യമായ മാതൃകയോട് സാമ്യമുണ്ടാകുന്നു അതിനാൽ വിപുലമായ പരിശീലനം വിവരങ്ങൾ ദീർഘകാല സംഭരണത്തിലേക്ക് നയിക്കുന്നതിന് ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നു ദൈർഘ്യമേറിയ സംഭരണ ഓർമ്മയിലേക്ക് വിവരങ്ങൾ എത്തിക്കുക എന്നതിനർത്ഥം എന്തെന്നാൽ 30 സെക്കൻഡ് കാലാവധി കഴിഞ്ഞാലും വിവരങ്ങൾ അപ്പോളും നിങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നതാണ് 7 പ്ലസ് മൈനസ് 2 എന്ന ഭാഗത്തിൻറെ ആശയം നാം സംസാരിച്ചിരുന്നു അതായത് 7 മൈനസ് 2 എന്നത് 5 ആകുന്നു കൂടാതെ 7 പ്ലസ് 2 എന്നത് 9 ഉം ആകുന്നു എന്ന ഭാഗത്തിൻറെ കാര്യം നിങ്ങൾ ഓർക്കുന്നല്ലോ 5 മുതൽ 9 ഭാഗം വരെ ശേഖരിക്കാൻ കഴിയും എന്നാണ് നാം പറഞ്ഞത് അതായത് ഇത് 7 പ്ലസ് മൈനസ് 2 എന്നതിൻറെ അടിസ്ഥാനപരമായ ഫലവുമാകുന്നു ഇതിനെ മാജിക് നമ്പർ എന്ന് വിളിക്കപ്പെടുന്നു കാരണം ഇത് വിവരങ്ങളെ ഭാഗങ്ങളായി ക്രമീകരിക്കാൻ അനുവദിക്കുന്നു കൂടാതെ ഈ ഭാഗം ഇതിൻറെ സംയുക്തവും താരതമ്യേന ദൈർഘ്യമേറിയ കാലയളവിൽ നമ്മോടൊപ്പം സൂക്ഷിക്കാൻ കഴിയുന്നു അതിനാൽ പരമാവധി 30 സെക്കൻഡ് വരെ 9 ഭാഗങ്ങളും കൂടാതെ നിങ്ങൾ അവയെ ഒന്നിച്ച് സംയോജിപ്പിക്കുകയാണെങ്കിൽ ഒരു തീരുമാനത്തിലെത്താൻ ഇത് നമ്മെ വളരെയധികം സഹായിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഭാഗത്തിൻറെ വലുപ്പം വൈദഗ്ദ്ധ്യമുള്ളവയും പ്രാരംഭകവും എന്ന രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ചും നിങ്ങൾ ഇപ്പോൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അതായത് നമുക്ക് കുട്ടികൾ എന്ന് പറയാം അവർ ടെലിഫോൺ നമ്പർ അതായത് പത്തക്ക മൊബൈൽ നമ്പർ മനഃപാഠമാക്കാൻ ശ്രമിക്കുന്നു അവർ സാധാരണയായി 3 ഭാഗങ്ങളോ 4 ഭാഗങ്ങളായോ നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രവണത കാട്ടുന്നില്ല എന്നാൽ ക്രമേണ കുറച്ചുകൂടി അനുഭവത്തിലൂടെ നാമെല്ലാവരും അത് ചെയ്യാൻ തുടങ്ങുന്നു കുട്ടികൾ പോലും അത് ചെയ്യാൻ തുടങ്ങുന്നു എങ്കിലും നാം വളർന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ മുതിർന്നവരെ എടുക്കുകയാണെങ്കിൽ ചെസ്സ് കളിക്കാത്തവരെയും ചെസ്സ് മാസ്റ്റേഴ്സിനെയും താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ചെസ്സ് മാസ്റ്റേഴ്സിനായിരിക്കും മികച്ച ഓർമ്മയുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കും കൂടാതെ അവർക്ക് നിരവധി നീക്കങ്ങൾ നിലനിർത്തേണ്ടതിനാൽ അവരുടെ ഓർമ്മയുടെ പരിധിയിൽ അധികവും എന്തിനും ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങളുടെ എതിരാളി ഒരു പരമ്പരയിൽ കൈക്കൊണ്ട നടപടി എന്തായിരുന്നു എന്നത് ഓർമ്മിക്കാൻ സഹായിക്കുന്ന വളരെ നല്ല സംഭരണ സംവിധാനം നിങ്ങൾക്ക് അനിവാര്യമാണ് തുടർന്ന് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയാൽ നിങ്ങളുടെ എതിരാളിയുടെ ഏതു തരം നീക്കം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നത് മുൻകൂട്ടി അറിയാൻ നിങ്ങളെ സഹായിക്കുന്നു അത് കൂടാതെ തുടക്കക്കാരെ അപേക്ഷിച്ച് ആ മേഖലയുടെ വിദഗ്ദ്ധർക്ക് നിരവധി ഓർമ്മയുടെ ഘടകങ്ങൾ മൊത്തത്തിൽ സംയോജിപ്പിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നത് അലൻ ബാഡ്ലിയുടെ മാതൃക നൽകിയ പ്രവർത്തന ഓർമ്മ എന്ന ആശയമാണ് ഹ്രസ്വകാല ഓർമ്മയിൽ അവതരിപ്പിച്ച മറ്റൊരു രസകരമായ ആശയം അലൻ ബാഡ്ലിയുടെ മാതൃക മൂന്ന് കാര്യങ്ങളായ ആർട്ടിക്കുലേറ്ററി ലൂപ്പ് വിസിയോ സ്പേഷ്യൽ സ്കെച്ച്പാഡ് സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്നിവയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അലൻ ബാഡ്ലിയുടെ പ്രവർത്തന ഓർമ്മയുടെ മാതൃക സെൻട്രൽ എക്സിക്യൂട്ടീവ് ആർട്ടിക്കുലേറ്ററി ലൂപ്പ് വിസിയോ സ്പേഷ്യൽ സ്കെച്ച്പാഡ് എന്നീ 3 കാര്യങ്ങളാൽ ഉൾക്കൊള്ളുന്നു തീരുമാനമെടുക്കൽ ന്യായവാദം ഭാഷ ധാരണ വിവരങ്ങൾ ദീർഘകാല ഓർമ്മയിലേക്ക് കൈമാറുക എന്നിവ കാര്യങ്ങളുടെ നിയന്ത്രണമെന്ന നിലയിൽ സെൻട്രൽ എക്സിക്യൂട്ടീവ് വഹിക്കുന്നു സെൻട്രൽ എക്സിക്യൂട്ടീവിൻറെ മറ്റൊരു പ്രവർത്തനമാണ് റിസെൻസി ഫലം സെൻട്രൽ എക്സിക്യൂട്ടീവ് ആർട്ടിക്യുലേറ്ററി ലൂപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു ഇതിനെ ഫൊണോളജിക്കൽ ലൂപ്പ് എന്നും വിളിക്കുന്നു വാക്കാലുള്ള പരിശീലനം നടക്കുന്ന ഹ്രസ്വ ബഫറാണിത് ഉടനടി വീണ്ടെടുക്കാൻ സഹായിക്കുന്നതിന് ആർട്ടിക്യുലേറ്ററി ലൂപ്പ് ഘടകങ്ങളെ പുനരുപയോഗം ചെയ്യുന്നു വിസിയോ സ്പേഷ്യൽ സ്കെച്ച്പാഡിനെ ആശ്രയിച്ചാണ് സെൻട്രൽ എക്സിക്യൂട്ടീവ് നിലനിൽക്കുന്നത് ഞാൻ പറഞ്ഞത് പോലെ ഇതിനെ വിസിയോ സ്പേഷ്യൽ സ്കെച്ച്പാഡ് എന്നും വിളിക്കപ്പെടുന്നു ദൃശ്യപരമായി അവതരിപ്പിച്ച വിവരങ്ങളുടെ പരിശീലനവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ആനിമേഷൻ തലച്ചോറിലെ പ്രവർത്തന ഓർമ്മയുടെ സ്ഥാനം കാണിക്കുന്നു ഇതാണ് തലച്ചോറിൻറെ മേഖല പന്ത്രണ്ട് ഇത് വസ്തു അനുബന്ധ പ്രവർത്തന ഓർമ്മക്ക് കാരണമാകുന്നു വദന പ്രവർത്തന ഓർമ്മയുടെ ഉത്തരവാദിത്തമുള്ള മേഖല 47 ആണ് അതിനു സമീപത്തായി ഉള്ളത് ഇതാണ് മേഖല 46 കൂടാതെ സ്ഥലസംബന്ധ പ്രവർത്തന ഓർമ്മയുടെ ഉത്തരവാദിത്വം ഇതിനാണ് ഇപ്പോൾ പ്രവർത്തന ഓർമ്മ അടിസ്ഥാനപരമായി ഒരൊറ്റ പൊതു ശേഷിയേക്കാൾ വിവിധ തരം കർത്തവ്യങ്ങളുടെ നിരവധി ഉപസംവിധാനങ്ങളാൽ ഉൾക്കൊള്ളുന്നതാണ് ഒരു നിർദ്ദിഷ്ട നൈപുണ്യ പ്രവർത്തനത്തിലെ പ്രവർത്തന ഓർമ്മ നേടിയ നൈപുണ്യത്തിൻറെ ഒരു വശമെന്ന നിലയിൽ വർദ്ധിക്കുന്നു അറിയാൻ വളരെ താൽപ്പര്യമുള്ള കാര്യമെന്തെന്നാൽ നാം രൂപീകരിക്കുന്ന ഭാഗങ്ങൾ ഹ്രസ്വകാല ഓർമ്മയിൽ ഒരു ശ്രേണിയായി ക്രമീകരിച്ചിരിക്കുന്നു എന്നതാണ് നിങ്ങൾ ഇത് ക്രമ രഹിതമാക്കാൻ ശ്രമിച്ചാൽ സംഭരണം പ്രശ്നത്തിലകപ്പെടുന്നു ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീൻ കാണുക നിങ്ങൾ 0 5 5 കാണുന്നു നിങ്ങൾ മുകളിലേക്ക് പോകുന്ന നിമിഷം തന്നെ ദശാംശസ്ഥാനം 2 5 ആയി മാറിയിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ ഈ വിവരങ്ങൾ മനഃപാഠമാക്കാൻ നിങ്ങൾക്ക് വ്യത്യസ്തമായ തന്ത്രങ്ങൾ ഉപയോഗിക്കാം എന്നാൽ രസകരമായ ഒരു കാര്യമെന്തെന്നാൽ ആദ്യത്തെ സംഖ്യ 0 25 ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു തുടർന്ന് ഇത് മുകളിലേക്ക് നീങ്ങുകയും ദശാംശ സ്ഥാനം മാറുകയും ചെയ്തതായി നിങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി ദശാംശ ബിന്ദുവിൻറെ സ്ഥാനം മാറ്റുന്ന ഒരു സമുച്ചയം മാത്രമേ നിങ്ങൾ ഓർക്കുന്നുള്ളൂ എന്നിട്ട് ഈ വിവരങ്ങൾ ഇങ്ങനെയാണ് നീങ്ങുന്നതെന്ന് നിങ്ങൾ പറയുന്നു അതിനാൽ 2 മൂന്നാം സ്ഥാനത്തേക്ക് നീങ്ങി തുടർന്നു 2 ഉം 2 ഉം കൂടി ചേർന്ന് 4 ആകുന്നു കൂടാതെ ഈ 5 മുകളിലേക്ക് നീങ്ങി തുടർന്ന് ഇത് ആവർത്തിക്കുകയും ചെയ്തു ഇപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയും തുടർന്ന് ഈ വിവരങ്ങൾ ഓർമ്മിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാൽ ശ്രേണിക്രമത്തിൽ വിവരങ്ങൾ ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ അത് ഓർമിക്കാനും നിലനിർത്താനും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു അതിനാൽ ഇത് വിപുലമായതോ പരിപാലനമയ പരിശീലനമോ രണ്ടിനും പ്രശ്നമുണ്ടാകും പരിപാലനത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകും കാരണം അക്കങ്ങൾ ഒരു ശ്രേണിയിൽ ക്രമീകരിച്ചിരിക്കുന്നവയല്ല മറിച്ച് അവ ക്രമരഹിതമായതിൽ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങൾ വിപുലമായതിലേക്ക് പോയാൽ സാധാരണയായി വിപുലീകരണമെന്നത് അർഥവത്താക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഒരു ശ്രേണിയിൽ ക്രമീകരിക്കാൻ അത് ശ്രമിക്കുന്നു എന്നതാകുന്നു അതിനാൽ ഇതോടെ ഹ്രസ്വകാല സംഭരണത്തെക്കുറിച്ചുള്ള ചർച്ച നാം പൂർത്തിയാക്കി അടുത്തതായി നിങ്ങളുടെ മൂന്നാമത്തെ അദ്ധ്യായത്തിൽ നാം കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കുന്നത് ദീർഘകാല ഓർമ്മയെക്കുറിച്ചായിരിക്കും സൂചകപദങ്ങൾ സെൻസറി മെമ്മറി എക്കോയിക് മെമ്മറി ഫൊണോളജിക്കൽ ലൂപ്പ് റിസെൻസി ഫലം ഐക്കോണിക് റിറ്റെൻഷൻ എക്കോയിക് റിറ്റെൻഷൻ